ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ II പാർട്ട് 5 ഹലോ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളിൽ നമ്മൾ മൊഡ്യൂൾ നമ്പർ 4 ലെക്ചർ നമ്പർ 35 ലാണ് തിരശ്ചീന തലം ലംബ തലം എന്നിവയിലേക്ക് ചെരിഞ്ഞുള്ള ലൈൻ പ്രൊജക്ഷനുകൾ ഈ ഭാഗത്ത് ഉൾക്കൊള്ളുന്നു കഴിഞ്ഞ ക്ലാസുകളിൽ ഒരു രേഖ ലംബ തലം തിരശ്ചീന തലം എന്നിവയിലേക്ക് ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻറെ യഥാർത്ഥ നീളം ലംബ തലത്തിൽ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ടോപ് വ്യൂവിൽ ലഭ്യമല്ല കൂടാതെ ആംഗിളുകളും അപ്പറെന്റ് ആംഗിളുകളാണ് നമുക്ക് ഇത് പ്രൊജക്ഷനുകളായി ലഭിക്കും ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് അത് പഠിക്കാം ഇവിടെ ഒരു രേഖ AB ഉണ്ട് അത് 80 മില്ലീമീറ്റർ നീളവും ലംബ തലവുമായി 45 ഡിഗ്രി ചെരിവുണ്ടാക്കുന്നു അതിനാൽ യഥാർത്ഥ നീളം 80 മില്ലീമീറ്ററാണ് ഇത് ലംബ തലവുമായി 45 ഡിഗ്രി ചെരിവ് ഉണ്ടാക്കുന്നു ഈ പ്രൊജക്ഷൻ ഫ്രണ്ട് വ്യൂവിൽ ഇത് 55 ഡിഗ്രി ഉണ്ടാക്കുന്നു അതിനാൽ ഇത് അപ്പറെന്റ് ആംഗിൾ ആണ് കൂടാതെ ഈ 45 ഡിഗ്രി ടോപ് വ്യൂവിൽ ഈ പൂർണ്ണമായ പ്രൊജക്ഷനായി നമ്മൾ കാണാൻ പോകുന്നു ഇപ്പോൾ a തിരശ്ചീന തലത്തിനു മുകളിൽ 20 മില്ലീമീറ്ററും ലംബ തലത്തിന് മുന്നിൽ 25 മില്ലീമീറ്ററുമാണ് അതിനാൽ പോയിന്റ് A ആരംഭിക്കുന്നത് തിരശ്ചീന തലത്തിന് മുകളിൽ 20 മില്ലീമീറ്ററും ലംബ തലത്തിന് മുന്നിൽ 25 മില്ലീമീറ്ററുമാണ് കൂടാതെ ഈ രേഖ മുഴുവൻ ഒന്നാം ക്വാഡ്രന്റിലാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻറെ പ്രൊജക്ഷൻ വരയ്ക്കാൻ കഴിയുമോ അത് തിരശ്ചീന തലവുമായി ഉള്ള ഇൻക്ക്ളിനേഷൻ ആംഗിൾ ആണ് ഇത് ലംബ തലം ഇതാണ് തിരശ്ചീന തലം എന്നിങ്ങനെ ചിത്രപരമായി കാണിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ AB പോയിന്റ് ഇത് A ഇത് B ഈ രീതിയിൽ ചെരിവ് ഉള്ളതാണ് നമുക്ക് പ്രൊജക്ഷനുകൾ ഉള്ളപ്പോൾ ഈ പ്രൊജക്ഷൻ ലംബ തലവുമായി 45 ഡിഗ്രി ചെരുവിൽ നമുക്ക് കാണാൻ കഴിയും അതിനാൽ 45 ഡിഗ്രി ചെരിവ് എന്നതിനർത്ഥം ഈ ആംഗിൾ 45 ഡിഗ്രി നമ്മൾ നീട്ടാൻ പോകുന്നുവെങ്കിൽ ഈ ഫ്രണ്ട് വ്യൂ 55 ഡിഗ്രി ഉണ്ടാക്കുന്നു അതിനാൽ നമുക്ക് ഈ പ്രൊജക്ഷൻ ഉള്ളപ്പോൾ ഫ്രണ്ട് വ്യൂ ഇവിടെയുണ്ട് ഇത് 55 ഡിഗ്രിയാണ് അതിനാൽ നമുക്ക് ഘട്ടം ഘട്ടമായി വരയ്ക്കാം നമ്മൾ പിന്തുടരേണ്ട ആദ്യ ഘട്ടം ഒരു XY ലൈൻ വരയ്ക്കുന്നു അതിനുശേഷം നമ്മൾ ഒരു പ്രൊജക്ടർ വരയ്ക്കണം തുടർന്ന് XY ന് മുകളിൽ 20 മില്ലീമീറ്ററും XY ലൈനിന് 25 മില്ലീമീറ്റർ താഴെയുള്ള ഒരു പോയിന്റ് a നമ്മൾ കണ്ടെത്തും ഈ മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ a പോയിന്റിൽ നിന്ന് നമ്മൾ 45 ഡിഗ്രി ചെരിവ് XY ലേക്ക് വരയ്ക്കും അതിനാൽ പോയിന്റ് a ഇൽ നിന്ന് 45 ഡിഗ്രി രേഖ വരയ്ക്കുക നമുക്ക് ഈ രേഖയെ യഥാർത്ഥ രേഖ എന്ന് വിളിക്കാം കൂടാതെ പോയിന്റ് b 1 കണ്ടെത്തുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ എന്നിട്ട് XY ലൈനിന് മുകളിലുള്ള ഫ്രണ്ട് വ്യൂവിലെ a1 a' ൽ നിന്ന് 55 ഡിഗ്രി എടുക്കുക അതിനുശേഷം b 1 നായി നമ്മൾ ലോക്കസ് വരയ്ക്കുന്നു b 1 ൽ നിന്ന് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു അവിടെ നിന്ന് ഈ നീളം എന്തുതന്നെയായാലും ഒരു ആംഗിൾ ഉണ്ടാക്കുക അങ്ങനെ ഈ പോയിന്റ് കണ്ടെത്തുന്നതിനുള്ള ഒരു സ്ഥാനത്ത് നമ്മൾ ഉണ്ടാകും നമുക്ക് ആ പോയിന്റ് ലഭിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ കർവ് ഉണ്ട് ആ അക്ഷത്തിൽ ഒരു യഥാർത്ഥ നീളം നമ്മൾ കണ്ടെത്തുന്നു അത് ഒരു തിരശ്ചീന രേഖ സൃഷ്ടിക്കുന്നു ഈ തിരശ്ചീന രേഖ ലഭിച്ചുകഴിഞ്ഞാൽ b പോയിന്റ് കണ്ടെത്താൻ ഇന്റർസെക്ഷൻ പോയിന്റ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു കൂടാതെ നമ്മൾ ഈ ടോപ് വ്യൂ യോജിപ്പിക്കുന്നു ഇങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത് ഘട്ടം ഘട്ടമായി നമുക്ക് നോക്കാം ആദ്യ മൂന്ന് നാല് ഘട്ടങ്ങൾ ഡ്രോയിംഗ് ഷീറ്റിൽ ഉണ്ട് ആദ്യം ഒരു XY ലൈൻ വരയ്ക്കുക X ആക്സിസും Y ആക്സിസും a a' എന്നിവയ്ക്കായി ഒരു പ്രൊജക്ടർ വരയ്ക്കുക അത് ഒരു ലംബ രേഖയാണ് അതിൽ നമുക്ക് a a' എന്നിവ കണ്ടെത്താനാകും നിങ്ങളുടെ സ്കെയിൽ ഉപയോഗിക്കുക a ഇവിടെ XY യേക്കാൾ 20 മില്ലീമീറ്റർ മുകളിലാണ് കൂടാതെ XY ലൈനിന് താഴെ ഇത് ഇവിടെ 25 മില്ലീമീറ്ററാണ് അവയെ a a എന്ന് നാമകരണം ചെയ്യുക ഇതിനുശേഷം ഈ പോയിന്റുകൾക്കായി ലോക്കസ് വരയ്ക്കുക ഇത് തുടർന്നുള്ള ഘട്ടങ്ങളിൽ ഉപയോഗപ്രദമാകും റോളർ സ്കെയിൽ ഉപയോഗിച്ച് ഇത് വരയ്ക്കുക പോയിൻറ് a ഇൽ നിന്ന് 45 ഡിഗ്രി ചെരിവ് XY ഇൽ കണ്ടെത്തണം അതിനാൽ നിങ്ങളുടെ പ്രൊട്ടക്റ്റർ 45 ഡിഗ്രി ലൈൻ ഉപയോഗിച്ച് ഇതിൽ യോജിപ്പിക്കുക ഇപ്പോൾ ആ ചിത്രത്തിൽ 80 മില്ലീമീറ്റർ യഥാർത്ഥ നീളം കണ്ടെത്തുക അത് ലഭിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് b 1 എന്ന് വിളിക്കാം b 1 ലൂടെ കടന്നുപോകുന്ന ഒരു ലോക്കസ് ലൈൻ വരയ്ക്കുക ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ 55 ഡിഗ്രി ആംഗിൾ കണ്ടെത്തണം അതായത് a' ഇവിടെ നിന്ന് 55 ഇവിടെ ഈ പോയിന്റുകൾ a മുതൽ 55 ഡിഗ്രിയിൽ യോജിപ്പിക്കുക അത് വരച്ചുകഴിഞ്ഞാൽ b 1 ൽ നിന്ന് ഒരു ലംബ വര വരയ്ക്കുക അതിനാൽ ഇവിടെ b 1 മുതൽ a യുടെ ലോക്കസ് വരെ തിരഞ്ഞെടുക്കണം

അതിനാൽ ഇതാണ് പോയിന്റ് ഇതിനെ 1 എന്ന് നാമകരണം ചെയ്യാം ഇപ്പോൾ ഇത് യഥാർത്ഥ നീളത്തിന്റെ തിരശ്ചീന ഘടകമാണ് അതിനാൽ ഇതാണ് യഥാർത്ഥ രേഖ a മുതൽ 1 വരെ എന്ന് നമ്മൾ തിരിക്കുകയാണെങ്കിൽ ഇതിനെ യഥാർത്ഥ രേഖയുടെ തിരശ്ചീന ഘടകമായി നമ്മൾ വിളിക്കും സാധാരണയായി നമ്മൾ ആ ഫ്രണ്ട് വ്യൂവിൻറെ ലോക്കസ് ആയി പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ നമ്മൾ അതിനെ a ലോക്കസിലേക്ക് തുടരുകയും അത് ഫ്രണ്ട് വ്യൂവിൽ മുകളിലേക്ക് തിരിക്കുകയും b' എന്ന് പേരിടുകയും വേണം അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇപ്പോൾ ഈ മുഴുവൻ നീളം കൈമാറുക അതിനാൽ ഈ 55 ഡിഗ്രി ലൈനിലേക്ക് അത് മാറ്റാം ഇത് ഇതിനകം നമുക്ക് 55 ഡിഗ്രി ആണെന്ന് അറിയാം ഇത് ഇതിനകം 45 ഡിഗ്രി എന്നും അറിയാം അതിനാൽ ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത 1 b' എന്ന് വിളിക്കാം അത് ചെയ്തു കഴിഞ്ഞാൽ b' ഇൽ നിന്ന് വീണ്ടും ഒരു ലോക്കസ് വരയ്ക്കുക അതിനാൽ a b ഫ്രണ്ട് വ്യൂ പ്രൊജക്ഷൻ ആണെന്ന് നമുക്കറിയാം അതിനാൽ b 1 ലൂടെ കടന്നുപോകുന്ന ഒരു ലോക്കസ് വരയ്ക്കുക യഥാർത്ഥ നീളം കണ്ടെത്തണം നമുക്ക് നൽകിയിട്ടുള്ള 80 മില്ലീമീറ്ററാണ് ഈ നീളം ആ ലോക്കസിൽ കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ ഈ രണ്ട് രേഖകളിലും ചേരുക a നമുക്ക് ഇതിനെ b 1' എന്ന് വിളിക്കാം അതിനാൽ ഇതാണ് യഥാർത്ഥ നീളം ഇതാണ് ഫ്രണ്ട് വ്യൂ യഥാർത്ഥ രേഖ ഈ ആംഗിൾ 55 ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് ആ തിരശ്ചീനവുമായി യഥാർഥ രേഖ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് അതിനാൽ ഇത് 102030 ഏകദേശം 35 34 ഡിഗ്രി ആണ് അതിനാൽ ഈ ആംഗിൾ ആൽഫ 34 ഡിഗ്രിയാണ് ഇപ്പോൾ നമ്മൾ ടോപ് വ്യൂ വരച്ചില്ല അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒറ്റ പോയിന്റ് b' പ്രൊജക്റ്റ് ചെയ്യുക എന്നതാണ് ഈ പോയിന്റിനെ b എന്ന് വിളിക്കുക a b എന്നിവ യോജിപ്പിക്കുക അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ടോപ്പ് വ്യൂ ലൈൻ ഉണ്ടാകും ഇതാണ് ഫ്രണ്ട് വ്യൂ ലൈൻ ഈ ആംഗിൾ 34 ആണ് ഇത് അപ്പറെന്റ് ആംഗിൾ 61 ഡിഗ്രിയാണ് ഫ്രണ്ട് വ്യൂവിലും ടോപ് വ്യൂവിലും നമ്മൾ പ്രൊജക്ഷനുകൾ വരയ്ക്കുന്ന രീതിയാണിത് ഇതാണ് ലംബ തലം ഇതാണ് തിരശ്ചീന തലം

ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ നമ്മൾ വരയ്ക്കാനുള്ള പുതിയ ഭാഗമായിരിക്കും അത് HPയുമായുള്ള ഇൻക്ക്ളിനേഷൻ ആംഗിൾ ആണ് അത് കണ്ടെത്തുന്നതിനുള്ള സ്ഥാനത്ത് നമ്മൾ ഉണ്ടാകും അതിനാൽ HP യുമായുള്ള ഏതൊരു ഇൻക്ക്ളിനേഷൻ ആംഗിൾ ആ ലംബ തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ അത് കാണും തിരശ്ചീന തലം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആംഗിൾ ആണിത് അതിനാൽ നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകാം അതിനാൽ ഉദാഹരണം 2 ഇവിടെ സ്ലൈഡിൽ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് AB രേഖയുടെ ഫ്രണ്ട് വ്യൂ 50 ഡിഗ്രി XY ലേക്ക് ചരിഞ്ഞിരിക്കുന്നു 55 മില്ലീമീറ്റർ നീളമുള്ളതും ആണ് ടോപ്പ് വ്യൂ 60 ഡിഗ്രി XY ലൈനിലേക്ക് ചരിഞ്ഞതുമാണ് അറ്റം A HPക്ക് മുകളിൽ 10 മില്ലീമീറ്ററും VPക്ക് മുന്നിൽ 15 മില്ലീമീറ്ററുമാണെങ്കിൽ അതിൻറെ പ്രൊജക്ഷൻ വരയ്ക്കുക യഥാർത്ഥ നീളം അറിയില്ല കൂടാതെ തിരശ്ചീന തലം ലംബ തലം എന്നിവയുമായുള്ള ചായ്വാണ് ഇത് ഇവയാണ് പ്രശ്നത്തിലെ അജ്ഞാത മൂല്യങ്ങൾ അതിനാൽ ഒരു രേഖയുടെ ഫ്രണ്ട് വ്യൂ നൽകിയിരിക്കുന്നതായി നമുക്ക് അറിയാം അതിനാൽ ഇത് അപ്പറെന്റ് നീളമാണ് കൂടാതെ അത് 55 മില്ലീമീറ്റർ നീളമുള്ളതും 55 ഡിഗ്രിയിലും ആണ് ടോപ്പ് വ്യൂ വീണ്ടും XY ലൈനിലേക്ക് 60 ഡിഗ്രി ചരിഞ്ഞ ആംഗിൾ ആണ് അതിനാൽ ഇനിപ്പറയുന്ന ഘട്ടങ്ങളിലൂടെ അത് ആരംഭിക്കാം അതിനാൽ ആദ്യം നമുക്ക് ഘട്ടങ്ങൾ നോക്കാം ഈ XY ലൈൻ വരച്ചതിനുശേഷം a കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അത് 10 മില്ലീമീറ്ററിന് തുല്യമാണ് ഇത് 10 മില്ലീമീറ്ററും a' 15 മില്ലീമീറ്ററും ആയിരിക്കും അതിനാൽ a ഉം a' ഉം കണ്ടുപിടിച്ചു a a' എന്നിവയിൽ നിന്ന് ലോക്കസ് ലൈനുകൾ വരയ്ക്കുക അതിനുശേഷം ഫ്രണ്ട് വ്യൂയിൽ 50 ഡിഗ്രി ഉള്ള ഒരു രേഖ വരയ്ക്കുക കൂടാതെ ഈ b ലഭിക്കുന്നതിന് ഇത് 55 മില്ലീമീറ്ററിൽ അടയാളപ്പെടുത്തണം കാരണം ഇത് 50 ഡിഗ്രി ഉണ്ടാക്കുന്നു അതിനാൽ ഇത് 50 ഡിഗ്രി രേഖയാണ് ഇത് 55 മില്ലീമീറ്റർ നീളമുണ്ട് അതിനാൽ b' കണ്ടുപിടിച്ചു അതുപോലെ നമുക്ക് ടോപ്പ് വ്യൂവിൽ 60 ഡിഗ്രി രേഖ വരയ്ക്കാം ഇതാണ് ഫ്രണ്ട് വ്യൂ ലൈൻ ഇതാണ് ടോപ്പ് വ്യൂ ലൈൻ അത് a നിന്ന് വരച്ചിരിക്കുന്നു b' ൽ നിന്ന് ഒരു പ്രൊജക്ടർ വരയ്ക്കുക p' നമുക്കറിയാം അത് 60 ഡിഗ്രി രേഖയെ കൂട്ടിമുട്ടുന്ന രീതിയിൽ താഴേക്ക് പ്രോജക്ട് ചെയ്യുന്നു പോയിൻറ് b കണ്ടെത്തുക a യും b യും യോജിപ്പിക്കുക ശേഷം അത് ഈ സ്ഥാനത്ത് നിന്ന് ഒരു ലോക്കസ് വരയ്ക്കുന്നു അതിനാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ അറിയാം ടോപ് വ്യൂ അറിയാം അതിനുശേഷം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിൽ നിന്ന് a' മുതൽ b വരെ ലോക്കസ് ലൈനിനെ യോജിപ്പിക്കുന്ന ഒരു ആർക്ക് നിർമ്മിക്കുകയും തുടർന്ന് താഴേക്ക് ഈ ലോക്കസ് ലൈനിലേക്കു പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് അത് യോജിക്കുന്ന ഇടം നമുക്ക് b1 എന്ന് വിളിക്കാം യഥാർത്ഥ നീളം ലഭിക്കുന്നതിന് a b തമ്മിൽ യോജിപ്പിക്കുക യഥാർത്ഥ നീളം ലഭിച്ചുകഴിഞ്ഞാൽ a' ഇൽ നിന്ന് ഈ ലോക്കസ് കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ആർക്ക് നിർമ്മിക്കുക അതിനാൽ b1 കണ്ടെത്തുന്നതിന് സാധിക്കും രേഖ അറിഞ്ഞുകഴിഞ്ഞാൽ ഈ ആംഗിൾ എന്താണ് എന്ന് നമുക്ക് അളക്കാൻ കഴിയും അതുപോലെ യഥാർത്ഥ ദൈർഘ്യം ഈ ടോപ് വ്യൂവിൽ സൃഷ്ടിക്കുന്ന ആംഗിൾ എന്താണ് അതിനാൽ അത് നമ്മുടെ ഡ്രോയിംഗ് ഷീറ്റിൽ ചെയ്തുതുടങ്ങാം ആദ്യം നമ്മൾ ഒരു XY ലൈൻ X ലൈൻ Y ലൈൻ വരയ്ക്കണം പൂർത്തിയായാൽ ഈ പ്രൊജക്ടർ ലൈനുകൾ കണ്ടെത്തുക ഇതിൽ നമ്മൾ XY ന് മുകളിൽ 10 മില്ലിമീറ്ററിൽ a' XY ലൈനിന് 15 മില്ലിമീറ്റർ താഴെയും കണ്ടെത്തേണ്ടതുണ്ട് ഇത് a ഇത് a ഇപ്പോൾ തിരശ്ചീന തലത്തിൽ നിന്ന് 50 ഡിഗ്രി ഫ്രണ്ട് വ്യൂ ലൈൻ വരയ്ക്കുക a' നിന്ന് ഈ രേഖകൾ യോജിപ്പിക്കുക നമ്മുടെ b' അടയാളപ്പെടുത്താൻ അവിടെനിന്ന് 55 മില്ലീമീറ്റർ നീളം ഉണ്ടാക്കുക അതിനാൽ നമ്മൾ ഇവിടെ 55 മില്ലീമീറ്റർ കണ്ടെത്തണം അതിനെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ b' എന്ന് വിളിക്കാം പിന്നെ ഈ രീതിയിൽ നമുക്ക് ഒരു പ്രൊജക്ടർ ലൈൻ ആവശ്യമാണ് അതുപോലെ ഈ ടോപ്പ് വ്യൂ ലൈൻ 60 ഡിഗ്രി കണ്ടെത്താം 60 ഡിഗ്രി ലൈൻ ഉണ്ടാക്കുക ഇവിടെ ഈ രേഖയിൽ യോജിപ്പിക്കുക ഇത് 60 ഡിഗ്രിയാണ് അതിനാൽ 60 ഡിഗ്രിയും ഇത് 50 ഡിഗ്രിയുമാണെന്ന് അടയാളപ്പെടുത്താം വ്യൂകൾ അല്പം കടുപ്പിക്കുക ഇപ്പോൾ ആ നീളം എന്താണെന്ന് നമുക്ക് അറിയില്ല എന്നാൽ ഇതാണ് ഫ്രണ്ട് വ്യൂ ഇതാണ് ടോപ്പ് വ്യൂ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ അക്ഷത്തിൽ യഥാർത്ഥ നീളം അടയാളപ്പെടുത്തുക അത് നമുക്ക് അറിയാത്തതിനെ ഇന്റർസെക്ക്ട് ചെയ്യും അതിനാൽ ഈ ഘട്ടം b പോയിന്റ് നിന്ന് പോയി പോയിൻറ് bകണ്ടെത്തുക a b യോജിപ്പിക്കുക അതിനാൽ ഈ ടോപ്പ് വ്യൂ ലൈനിൽ a b പോയിന്റ് കണ്ടെത്തേണ്ടതുണ്ട് അതിനായി b' ലൂടെ കടന്നുപോകുന്ന ഒരു പ്രൊജക്ടർ ലൈൻ നമ്മൾ കണ്ടെത്തണം കാരണം അവ ഇവിടെ എവിടെയെങ്കിലും പൊരുത്തപ്പെടുന്ന പ്രൊജക്ഷനുകളാണ് അതിനെ യഥാർത്ഥ രേഖയുമായി ഇരുണ്ട നിറത്തിൽ യോജിപ്പിക്കുക ഇതിനെ പോയിന്റ് b എന്ന് വിളിക്കുക തുടർന്ന് ഇവിടെ എവിടെയെങ്കിലും ഒരു ലോക്കസ് ലൈൻ വരയ്ക്കുക ഇപ്പോൾ ഈ LFV ലൈൻ കണ്ടെത്തുന്നതിന് ഒരു ആർക്ക് വഴി ഈ ഫ്രണ്ടൽ വ്യൂ പ്രോജക്റ്റ് ചെയ്യുക ഇതുപോലെ ഈ മുഴുവൻ രേഖയും പ്രോജക്റ്റ് ചെയ്യുക ഇത് ഈ പോയിന്റിനെ ഇന്റർസെക്ക്ട് ചെയ്യുന്നു നമുക്ക് ആ പോയിന്റിനെ b 1 എന്ന് വിളിക്കാം ഇപ്പോൾ a b എന്നിവ യോജിപ്പിക്കുക ഇത് നമ്മൾ അളക്കുന്ന യഥാർത്ഥ നീളമാണ് ഇപ്പോൾ ആ യഥാർത്ഥ നീളം ഇവിടെ നിന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ഈ രേഖയിൽ ഇന്റർസെക്ക്ട് ചെയ്യുക അങ്ങനെ നമുക്ക് ഈ b 1' ലഭിക്കും ഇപ്പോൾ a b എന്നിവ യോജിപ്പിക്കുക ഇതാണ് യഥാർത്ഥ നീളം

ഇൻക്ക്ളിനേഷൻ ആംഗിൾ നമുക്ക് അറിയില്ല അതിനാൽ ഇത് അളന്നു കണ്ടുപിടിക്കാം ഇത് ഏകദേശം 31 ഡിഗ്രിയാണ് അതുപോലെ ട്രൂ ലെങ്ത് ആംഗിൾ യഥാർത്ഥ നീളം ഉണ്ടാക്കുന്ന ചെരിവ് കണ്ടുപിടിക്കാം ഇത് 49 ഡിഗ്രിയും യഥാർത്ഥ നീളം 83 മില്ലീമീറ്ററുമാണ് അജ്ഞാതമായ യഥാർത്ഥ നീളം 83 മില്ലീമീറ്ററും തിരശ്ചീന തലവുമായി ഈ യഥാർത്ഥ രേഖ നിർമ്മിച്ച ഇൻക്ക്ളിനേഷൻ ആംഗിൾ 31 ഡിഗ്രിയും ലംബ തലവുമായി 49 ഡിഗ്രിയുമാണ് അടുത്ത ക്ലാസുകളിൽ ഈ ലൈൻ പ്രൊജക്ഷനുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മൾ നോക്കും